നമ്മൾ റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളിംഗ് നോക്കുകയും അതിൽ ഏറ്റവും ലളിതമായ ഷെഡ്യൂളറിൽ തുടങ്ങുന്നു തുടർന്ന് കൂടുതൽ സങ്കീർണ്ണമായ ടാസ്ക് ഷെഡ്യൂളറുകളെയും വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെയും കുറിച്ച് ചർച്ച ചെയുകയും അവരുടെ സങ്കീർണ്ണതയ്ക്ക് അനുസരിച്ച വിവിധ തരം ഷെഡ്യൂളറുകൾ ഉപയോഗിക്കുകയും ചെയുന്നു ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളാണ് ഏറ്റവും ലളിതമായ ഷെഡ്യൂളർ എന്ന് നമ്മൾ പറഞ്ഞു അവസാന പ്രഭാഷണത്തിൽ നമ്മൾ ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവുകളിൽ ആരംഭിച്ചു തുടർന്ന് ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളർ നോക്കുകയും പിന്നെ സൈക്ലിക് ഷെഡ്യൂളർ തുടങ്ങിയിരുന്നു ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടാസ്ക്കുകളുടെ ടേബിൾ അവയുടെ നിർവ്വഹണ സമയവും പരിപാലിക്കുന്നുവെന്നും ഇത് ഓരോ തവണയും ഒരു ടൈമർ സെറ്റ് ചെയ്യുമെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളരിൽ ടൈമർ സെറ്റ് ചെയേണ്ടത് ഉണ്ട് ഒരാൾ ടൈമർ സെറ്റ് ചെയുന്നു അതുപോലെ അതിന്ടെ എണ്ണം എന്നിവ ക്രമീകരണപെടുത്തുന്നു ഇത് ഒരു പ്രധാന ഓവർഹെഡാണ് കാരണം ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓരോ ഷെഡ്യൂളർ എക്സിക്യൂഷനും ഒരു മില്ലിസെക്കൻഡോ അതിൽ കുറവോ മാത്രമേ ആവശ്യമുള്ളൂ ഷെഡ്യൂളർ എക്സിക്യൂഷന്റെ ഓരോ ഇൻസ്റ്റൻസ് ഷെഡ്യൂളിംഗ് പോയിന്റുകളിൽ നടക്കുന്നു സൈക്ലിക് ഷെഡ്യൂളർമാർ ഈ പ്രശ്നത്തെ മറികടക്കുന്നുവെന്നും മൾട്ടി റേറ്റ് ടാസ്ക്കുകൾ വ്യത്യസ്ത സമയപരിധിക്കുള്ളിൽ നിർവ്വഹിക്കേണ്ട ടാസ്കുകൾ എന്നിവ കൈകാര്യം ചെയ്യാനാകുമെന്ന അർത്ഥത്തിൽ ഇവ കൂടുതൽ സങ്കീർണ്ണമാണെന്നും നമ്മൾ പറഞ്ഞു കാര്യക്ഷമമായി അവർക്ക് ഒരു സൈക്ലിക് പീരിയോഡിക് ടൈമർ സെറ്റ് ചെയേണ്ടത് ഉണ്ട് സിസ്റ്റം ഇനിശ്യലൈസ ചെയുമ്പോൾ ഒരിക്കൽ എന്നാൽ ഒരു സൈക്ലിക് ഷെഡ്യൂളറിനായി ഷെഡ്യൂൾ സെറ്റ് ചെയുന്നത് ഒരു ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറുമായോ ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ തുച്ഛമല്ല വ്യത്യസ്ത പീരിയഡ് ഉള്ള n ടാസ്ക്കുകൾ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ വികസിപ്പിക്കേണ്ട പീരിയഡ് തരുന്നത് അവരുടെ പീരിയഡ്ക ളുടെ LCM വെച്ചാണ് ഈ സമയത്ത് ചില ടാസ്ക്കുകളുടെ LCM ഒന്നിലധികം തവണ ആവർത്തിക്കുകയും ചില ടാസ്ക്കുകൾ ഒരു തവണ മാത്രം സംഭവിക്കുകയും ചെയുന്നു ഈ LCM ന്ടെ പീരിയഡ്നേ ഹൈപ്പർ പിരീഡ് അല്ലെങ്കിൽ പ്രധാന സൈക്കിൾ എന്ന് വിളിക്കുന്നു തുടർന്ന് പ്രധാന സൈക്കിൾ ഫ്രെയിമുകളായി തുല്യ വലുപ്പത്തിലുള്ള ഫ്രെയിമുകളായി തിരിച്ചിരിക്കുന്നു പീരിയോഡിക് ടൈമർ ഈ ഫ്രെയിം അതിർത്തികളിൽ ഒരു ഇന്റെര്പ്ട് നൽകാൻ സെറ്റ് ചെയ്തിരിക്കുന്നു ഓരോ തവണയും ഒരു പീരിയോഡിക് ടൈമർ ഇന്ററപ്റ്റ് വരുമ്പോൾ ഈ ഷെഡ്യൂളർ പ്രവർത്തിക്കുകയും ഷെഡ്യൂൾ ടേബിൾ പരിശോധിച്ച് നടപ്പിലാക്കുന്നതിനുള്ള അടുത്ത ടാസ്ക് തീരുമാനിക്കുകയും ചെയ്യുന്നു ഫ്രെയിം സെറ്റ് ചെയുന്നതും ഫ്രെയിമുകളിലേക്ക് ടാസ്കുകൾ ഏൽപ്പിക്കുന്നതും ഈ സൈക്ലിക് ഷെഡ്യൂളിംഗിലെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ഫ്രെയിമുകൾ എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു ഫ്രെയിം ഡ്യൂറേഷൻ ഫ്രെയിമുകൾക്ക് നൽകിയിട്ടുള്ള ടാസ്ക്കുകൾ എന്നിവ ചർച്ചചെയ്യാം പ്രധാന സൈക്കിൾ ടാസ്കുകൾ ഫ്രെയിമുകളിലേക്ക് നിയോഗിക്കുനു ആദ്യ ഫ്രെയിമിലേക്കു ഒരു ഹരിത നിറത്തിൽ ഉള്ള ടാസ്കും രണ്ടാമത്തേത് ചുമപ്പും മൂന്നാമത് ഒരു മന്നയും കൊടുതെന്നു വിചാരിക്കുക അതുപോലെ ഉള്ളവ അടുത്ത പ്രധാന സൈക്കിൾ അവ ഒരേപോലെ ആവർത്തിക്കുന്നുവെന്ന് കരുതുക അടിസ്ഥാനപരമായി ഒരു പ്രധാന സൈക്കിളിനായി സൈക്ലിക് ഷെഡ്യൂളർ ഷേഡ്യൂൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്നു കരുതുക അതിൽ കുറച്ച് ഫ്രെയിമുകൾ ഉണ്ടായിരിക്കാം 12 ഫ്രെയിമുകൾ ഉണ്ടെന്നു കരുത്തു തുടർന്ന് ഷെഡ്യൂൾ ചെയ്ത ടേബിൾ ഒരു എൻട്രി ഉണ്ടാകും 12 എൻട്രികൾ കൂടാതെ ഓരോ എൻട്രിയും ഏത് ടാസ്ക് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കണം എന്ന് തിരിച്ചറിയും കൂടാതെ ഈ ലളിതമായ ഷെഡ്യൂളറുകളിലെ അടിസ്ഥാന പ്രോഗ്രാമുകളും പ്രോഗ്രാം 1 പ്രോഗ്രാം 2 അടുത്തത് തുടങ്ങിയവ പ്രവർത്തിപ്പിക്കണം പ്രധാന സൈക്കിൾ നിർണ്ണയിക്കുന്നത് ടാസ്ക് പിരീഡുകളുടെ LCM ആണ് കൂടാതെ ടാസ്ക്കുകൾ ആർബിറ്ററി ഘട്ടങ്ങളാണെങ്കിൽപ്പോലും എന്നാലും സൈക്ലിക് ഷെഡ്യൂളർനു ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം തുടക്കത്തിലെ കുറച്ചു സൈക്കിൾസ് ഫേസ് ടൈം ആകുംവരെ ടാസ്കുകൾക്കു കൊടുത്തിരിക്കുന്ന ഫ്രെയിം ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുന്നു കാരണം ടാസ്ക് ഇൻസ്റ്റൻസ് ഫേസ് തീരുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും ഫ്രെയിം സൈസ് പ്രധാന സൈക്കിൾ വിഭജിക്കുന്നില്ലെങ്കിൽ LCM സമഗ്രമായ ഫ്രെയിമുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഫ്രെയിം പ്രധാന സൈക്കിൾ വിഭജിക്കുന്നു അങ്ങനെയല്ലെങ്കിൽ ഫ്രെയിം പ്രധാന സൈക്കിളിനെ വിഭജിക്കുന്നില്ല പ്രധാന സൈക്കിൾ അതിർത്തിയിൽ പൂർത്തിയാകാത്ത ചില ഫ്രെയിമുകൾ നമുക്കുണ്ട് അതിനാൽ പ്രധാന സൈക്കിളിനേക്കാൾ വളരെ വലുതായി ഷെഡ്യൂൾ സ്റ്റോർ ചെയേണ്ടത് ഉണ്ട് അതിനാൽ ഇത് അതിലൊന്നാണ് ഫ്രെയിം സൈസ് ക്രമീകരിക്കുന്നതിനുള്ള ആവശ്യകതകൾ അതായത് ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ വിഭജിക്കണം അല്ലാത്തപക്ഷം ടേബിൾ സൂക്ഷിക്കേണ്ട ഷെഡ്യൂൾ ദൈർഘ്യം വളരെ വലുതായിരിക്കും ഒരു സാധാരണ ആപ്ലിക്കേഷനിൽ ചെറിയ സൈക്കിൾ പ്രധാന സൈക്കിൾ സമചതുരമായി വിഭജിക്കുന്ന ഫ്രെയിമുകളാണെന്ന് നമുക്ക് അനുമാനിക്കാം പീരിയോഡിക് ടൈം സൃഷ്ടിച്ച ഇന്റെര്പ്റ്സ് ഫ്രെയിം ബൌണ്ഡറി മാർക്ക് ചെയുന്നു ടാസ്ക് പീരിയഡ്ഇൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രധാന സൈക്കിൾ തീരുമാനിക്കുന്നു ടാസ്ക് പിരീഡുകളുടെ LCM ആണ് ഇതു തുടർന്ന് അത് n ഫ്രെയിമുകളുടെ എണ്ണത്തിൽ വിഭജിക്കപ്പെടുന്നു എല്ലാ ഫ്രെയിമുകളും തുല്യ വലുപ്പമുള്ളവയാണ് തുടർന്ന് പീരിയോഡിക് ഷെഡ്യൂളർ ഓരോ ഫ്രെയിം ലെങ്ത് ശേഷം ഒരു ഇന്റെര്പ്ട് നൽകാൻ സെറ്റ് ചെയുമ്പോൾ പീരിയോഡിക് ടൈമറിൽ നിന്നുള്ള ഇന്റെര്പ്ട് വന്നയുടനെ സൈക്ലിക് ഷെഡ്യൂളറുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഷെഡ്യൂൾ ടേബിൾ പരിശോധിച്ച് ടേബിൾഇൽ സൂചിപ്പിച്ചിരിക്കുന്ന അനുബന്ധ ടാസ്ക് നിർവ്വഹിക്കുന്നു നേരത്തേ പൂർത്തിയാക്കിയ ടാസ്ക് നിഷ്ക്രിയമായി മടങ്ങുകയും അടുത്ത ഫ്രെയിം ബൌണ്ടറി പീരിയോഡിക് ടൈമറിൽ നിന്നുള്ള ഒരു ഇന്റെര്പ്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു സൈക്ലിക് ഷെഡ്യൂളർ സജീവമാവുകയും ഷെഡ്യൂൾ ടേബിൾ പരിശോധിക്കുകയും അടുത്തതായി പ്രവർത്തിപ്പിക്കാനുള്ള ടാസ്ക് p4 കണ്ടെത്തുകയും അത് ആരംഭിക്കുകയും ചെയുന്നു ഇത് നേരത്തെ പൂർത്തിയാക്കി അടുത്ത ഫ്രെയിം ഇവിടെ അവസാനിക്കുന്നു പ്രധാന സൈക്കിളിന് ശേഷം ഈ ഷെഡ്യൂൾ ആവർത്തിക്കുകയും ഇവിടെ കാണുക ചുവന്ന വരയുടെ ഈ ചെറിയ നീളം കാണിക്കുന്നത് ഷെഡ്യൂളർ എക്സിക്യൂഷന്റെ എക്സിക്യൂട്ടിംഗ് ടൈം ആണ് അതു ടാസ്ക് എക്സിക്യൂട്ടിങ് ടൈം ആയി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് സമയമെടുക്കും ഇവ കാര്യക്ഷമമായ ഷെഡ്യൂളറാണ് ഓരോ ഷെഡ്യൂളിലും ആവശ്യമുള്ള ജോലി ചെറുതാണ് ഇന്റെര്പ്ട് സംഭവിച്ചയുടൻ ഷെഡ്യൂൾ ടേബിൾ പരിശോധിച്ച് അനുബന്ധ ടാസ്ക് നിർവ്വഹിക്കുന്നു മറ്റ് പ്രവർത്തനങ്ങളൊന്നുമില്ല ടൈമർ ക്രമീകരണവുമില്ല കാരണം ഇത് ഒരു പീരിയോഡിക് ടൈമർ ആണ് സിസ്റ്റം സമാരംഭിക സമയത്ത് ഇത് ഒരു തവണ സെറ്റ് ചെയപെടുന്നു സാധാരണ ഷെഡ്യൂൾ പട്ടിക വ്യത്യസ്ത ഫ്രെയിമുകളും നിർവ്വഹിക്കേണ്ട ടാസ്ക് കളും കാണപ്പെടും തീർച്ചയായും നമുക്ക് മനസിലാക്കാനായി ഞങ്ങൾ ഇത് കാണിച്ചു തന്നിരുന്നു പക്ഷേ ഒരു യഥാർത്ഥ ടാസ്ക് ടേബിൾഇൽ ഫ്രെയിം നമ്പർ തുടങ്ങിയവ എഴുതേണ്ടതില്ല ഏത് ടാസ്ക് നിർവ്വഹിക്കണം എന്ന ക്രമം ഞങ്ങൾ സ്റ്റോർ ചെയുന്നു എക്സിക്യൂട്ട് ചെയേണ്ട പ്രോഗ്രാമുകളുടെ പേരും അറേയിലെ ഷെഡ്യൂലെർ ഇന്ഡസ്സ് പിന്നെ ടാസ്കുകളുടെ വെക്റ്റർ പിന്നെ കറന്റ് ആയിട്ടുള്ളത് കണ്ടു പിടിക്കുന്നു എക്സിക്യൂഷൻ തുടങ്ങുന്നു അതിനു ശേഷം ടേബിൾ എൻട്രി ഇൻക്രെമെന്റ് ചെയുന്നു ഒരു സൈക്ലിക് ഷെഡ്യൂളർ ഉപയോഗിക്കുന്നതിലെ ഒരു സങ്കീർണത ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചു അതായത് ഒരു ഷെഡ്യൂൾ നിർമ്മിക്കുക എന്നത് ഇവിടെ രണ്ട് പ്രധാന വശങ്ങൾ ഉണ്ട് ഒന്ന് ഫ്രെയിം ഡ്യൂറേഷൻ എങ്ങനെ ഫിക്സ് ചെയാം എന്നതാണ് രണ്ടാമത്തേത് ഫ്രെയിമുകൾക്ക് ടാസ്കുകൾ നൽകുന്നതിനെക്കുറിച്ചാണ് ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്ത ശേഷം നമുക്ക് ഫ്രെയിമുകളും ടാസ്ക്കുകളും ഉള്ള ഷെഡ്യൂൾ ടേബിൾ ഉണ്ടാകും ഷെഡ്യൂൾ ടേബിൾ വികസിപ്പിക്കുന്നതിനുള്ള സമഗ്രത നോക്കാം ഷെഡ്യൂൾ വികസിപ്പിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഘട്ടങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുക എന്നതാണ് തുടർന്ന് സ്വീകാര്യമായ ഫ്രെയിം സൈസ് നേടാനുള്ള ആദ്യ ശ്രമത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും വിജയിച്ചേക്കില്ല നമുക്ക് സ്വീകാര്യമായ ഫ്രെയിം സൈസ് ലഭിക്കുകയാണെങ്കിൽ ജോലി വളരെ എളുപ്പമാണ് അടുത്ത ഘട്ടം ജോലികൾ ഫ്രെയിമുകളിൽ സ്ഥാപിക്കുക എന്നതാണ് എന്നാൽ മിക്കപ്പോഴും ഫ്രെയിം സൈസ്ഒന്നും അനുയോജ്യമല്ല കാരണം നമ്മൾ ചില ജോലികളെ ചെറിയ ജോലികളായി വിഭജിക്കേണ്ടതുണ്ട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ നോകാം കൂടാതെ രീതിശാസ്ത്രംവെച്ച് വലിയ എക്സിക്യൂഷൻ ടൈം എടുക്കുന്ന ജോലികൾ ശെരിയായ ഫ്രെയിം സൈസ് കണ്ടെത്തുന്നതിന് തടസ്സമാകുന്ന കുറ്റവാളികളാണ് ഇതു ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ ബുധിമുട്ടു ഉണ്ടാകുന്നു എന്നുമാത്രമല്ല ശെരിയായ ഫ്രെയിം സൈസ് കണ്ടു പിടിക്കാനും തടസമാണ് ഇവ ലളിതമായ ഷെഡ്യൂളറുകളാണെന്ന് ഓർമ്മിക്കുക ഇവ പ്രീ എംപ്റ്റീവ് മാത്രമല്ല ഓരോ ഫ്രെയിമിലും അവർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു മാത്രമല്ല ചില ഉയർന്ന പ്രയോരിറ്റി ടാസ്കുകൾ ഉണ്ടാകുമെന് മാത്രമല്ല അതിനുശേഷo ചില ടാസ്കുകളെ അബഹരികുകയും വേണം നമുക്ക് ഇവിടെ ഒരു ലളിതമായ ടേബിൾ ഉണ്ട് കൂടാതെ ഫ്രെയിം ബൌണ്ടറി ആയി ബന്ധപ്പെട്ട ഇന്റെര്പ്ട്ഉം പിന്നെ സൈക്ലിക് എക്സിക്യൂട്ടീവ് ഷെഡ്യൂളറുകൾ ടേബിൾ പരിശോധിച്ച് അനുബന്ധ ടാസ്ക് നിർവഹിക്കാൻ ആരംഭിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് എ ബി സി ഡി എന്നീ നാല് ടാസ്കുകൾ ഉണ്ട് ഓരോ ജോലിക്കും അതിന്ടെ ടാസ്ക് ഇൻസ്റ്റൻസ് നിർവചികുന്ന കമ്പ്യൂടെഷൻ ടൈം ആവശ്യമായി വരുന്നു എയ്ക്ക് 1 മില്ലിസെക്കൻഡ് ആവശ്യമാണ് ബിക്ക് 3 മില്ലിസെക്കൻഡും സിക്ക് 2 ഉം ഡിക്ക് 8 മില്ലിസെക്കൻഡും ആവശ്യമാണ് ആദ്യ രണ്ട് ടാസ്ക് പീരിയഡ് 10 ഉം അടുത്ത രണ്ട് പേർക്ക് 20 ഉം പിന്നെ ഡെഡ്ലൈൻ പീരിയഡ് ആയി തുല്യവുമാണ് അടുത്ത ഇൻസ്റ്റൻസ് വരുന്നതിനു മുമ്പ് ഈ ടാസ്ക്കിനായി അടുത്ത ജോലി വരുന്നു ടാസ്ക് നിർവ്വഹിക്കണം D എന്നത് ഒരു വലിയ ടാസ്ക് ആണ് പിന്നെ നമ്മൾ ഇപ്പോൾ 2 6 എന്നിങ്ങനെ വിഭജിക്കുന്നു ഇവിടെ പ്രധാന സൈക്കിൾ 20 ആണ് ഇത് ഈ നാല് ജോലികളുടെ പീരിയഡ്ന്ടെ LCM ആണ് അത് 20 മില്ലിസെക്കൻഡാണ് കൂടാതെ ഒരു ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഓരോ ഫ്രെയിം വലുപ്പവും പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കണം അതിനാൽ നമ്മൾ ഒരു ടേബിൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു എന്തുകൊണ്ട് 2 അല്ലെങ്കിൽ 5 അല്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഫ്രെയിമിനും ഏത് ജോലിയും ഉൾക്കൊള്ളാൻ കഴിയണം ഏതൊരു ജോലിയും ഫ്രെയിമുകളിലൊന്നിൽ പൂർത്തിയാക്കാൻ കഴിയണം സാധ്യമായ ഫ്രെയിം വലുപ്പങ്ങൾ 1 2 5 10 20 ആണ് അതുപോലെ 1 2 5 എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഇവിടെ 8 ജോലി ആവശ്യമാണ് അതിനാൽ നമുക്ക് 10 തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ വ്യത്യസ്ത ഫ്രെയിമുകളിൽ ഇവ സ്ഥാപിക്കാo കൂടുതൽ സ്ഥിതിവിവരക്കണക്കുകൾ ചർച്ച ചെയ്യാം ഈ സാഹചര്യത്തിൽ സൈക്ലിംഗ് ഷെഡ്യൂളർ ഫ്രെയിം നമ്പർ 0 ആണെങ്കിൽ ലളിതമാണ് തുടർന്ന് രണ്ട് ഫ്രെയിമുകൾ ഉണ്ട് നമ്മൾ 10 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എ ബി സി ഡി എന്നിവ പ്രവർത്തിക്കുന്നു അല്ലാത്തപക്ഷം അത് എ ബി ഡി പ്രവർത്തിപ്പിക്കുന്നു തുടർന്ന് ഫ്രെയിം നമ്പർ നടപ്പിലാക്കുന്നു ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇനിപ്പറയുന്നവയാണ് ഫ്രെയിം സൈസ് ഏത് ടാസ്ക് എക്സിക്യൂഷൻ ടൈംനെക്കാളും വലുതായിരിക്കണം കാരണം ഓരോ ടാസ്കും ഒരു ഫ്രെയിമിലേക്ക് നിയോഗിക്കേണ്ടതുണ്ട് മാത്രമല്ല അത് ഫ്രെയിമിൽ അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കുകയും വേണം അത് ഫ്രെയിം സൈസ് ലോവർ ബൌണ്ട്ഇൽ സെറ്റ് ചെയുന്നു ഫ്രെയിമിന് ലോവർ ബൌണ്ട്ലുള്ള ഒരു ടാസ്ക്കിന്റെ പരമാവധി എക്സിക്യൂഷൻ ടൈം അതിനേക്കാൾ ചെറുതായിരിക്കരുത് ഫ്രെയിം സൈസ്സ്ലെ രണ്ടാമത്തെ നിബന്ധന ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെയോ ഹൈപ്പർ പിരീഡിനെയോ വിഭജിക്കണം എന്നത് ആണ് മൂന്നാമത്തെ നിബന്ധന ഒരു ടാസ്ക്കിന്റെ റിലീസ് ടൈംനും ടാസ്ക്കിന്റെ ഡെഡ്ലൈനിനും ഇടയിൽ കുറഞ്ഞത് ഒരു ഫ്രെയിമെങ്കിലും ഉണ്ടായിരിക്കണം ടാസ്ക് ആവർത്തിക്കുന്ന സമയം റിലീസ് ടൈംനും ഡെഡ്ലൈനിനും ഇടയിൽ കുറഞ്ഞത് ഒരു ഫ്രെയിമെങ്കിലും ഉണ്ടായിരിക്കണം ഇത് ആവശ്യമാണ് കാരണം ടാസ്ക് ജോലിയിൽ എത്തി ടാസ്ക് ഇൻസ്റ്റൻസ് ചെയ്യുകയും ജോലി എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ഫ്രെയിം ബൌണ്ടറിക് ശേഷം റിലീസ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ആ ഫ്രെയിമിലേക്ക് അത് നിയോഗിക്കാൻ കഴിയില്ല കാരണം ഫ്രെയിം ബൌണ്ടറിയിൽ ഷെഡ്യൂളർ ജോലിയുടെ നിർവ്വഹണം ആരംഭിക്കണം ഫ്രെയിം ബൌണ്ടറിക് ശേഷമാണു ജോബ് വരുന്നതേകിൽ നമുക്ക് ഈ ഫ്രെമിലെ ജോബിന്റെ തുടക്കം എക്സിക്യൂട്ട് ചെയ്യാൻ ആകില്ല അതുപോലെ ഡെഡ്ലൈൻ ഇവിടെ എവിടെയെകിലുമോ അല്ലെകിൽ ഫ്രെമിന് അകത്തോ ആണെകിൽ ഡെഡ്ലൈനിനു ഉളിൽ ജോബിന് എക്സിക്യൂഷൻ പൂർത്തികരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു ക്ലിയർ ഫ്രെയിം എങ്കിലും ടാസ്ക് റിലീസ് ചെയുനതിനും പൂർത്തികരിക്കുന്നതിനും ഇടയിൽ ഉണ്ടാകണമ് ഒരു ഫ്രെയിംന്ടെ ആവശ്യകത കൂടുതൽ ചർച്ച ചെയാം ഒരു ക്ലിയർ ഫ്രെയിം എങ്കിലും റിലീസ് ടൈംനും കംപ്ലീഷൻ ടൈംനും ഇടയിൽ ഉണ്ടാകണം അതിനാൽ F ടാസ്ക്കിന്റെ സൈസ്നേക്കാൾ വലുതായിരിക്കണം അല്ലാത്തപക്ഷം ഇത് പ്രവർത്തിപ്പിക്കുന്നത് സങ്കീർണ്ണമാകും കാരണം ഓരോ തവണയും ഒരു പീരിയോഡിക് ടൈമർ ഇന്ററപ്റ്റിൽ ഷെഡ്യൂളർ ഉണരുമ്പോൾ അത് ചില ജോബ്കുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുകയും F പ്രധാന സൈക്കിൾനേ സമചതുരമായി വിഭജിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഷെഡ്യൂൾ ടേബിൾ വലുതാകും ഒരു ടാസ്ക്കിന്റെ വരവും അതിന്റെ ഡെഡ്ലൈനിനും ഇടയിൽ ഒരു ഫുൾ ഫ്രെയിമെങ്കിലും നിലനിൽക്കണം എന്നു ഉള്ളത് മൂന്നാമത്തെ നിബന്ധനയാണ് ഇത് ഫ്രെയിം സൈസ്ന്ടെ അപ്പർ ബൌണ്ട് സെറ്റ് ചെയുന്നു നമ്മൾ ഒരു ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിലധികം ഫ്രെയിം സൈസ്ഉകൾ സ്വീകാര്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയേക്കാം അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുക കാരണം ഇത് ഓവർഹെഡ് കുറയ്ക്കുന്നു കാരണം പീരിയോഡിക് ടൈമറിൽ നിന്നുള്ള ഇന്റെര്പ്റ്റുകളുടെ എണ്ണം ഷെഡ്യൂളർ പ്രവർത്തിക്കുന്ന സമയത്തിന്റെ എണ്ണം കുറക്കുന്നു ഒന്നിലധികം ഫ്രെയിം സൈസ് സ്വീകാര്യമാകുമ്പോൾ ഏറ്റവും വലിയ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് നല്ലതു പ്രധാന സൈക്കിൾ ചെറിയ സൈക്കിൾഉം ഫ്രെയിമും കൊണ്ട് വിഭജിക്കപ്പെടുന്നില്ലെങ്കിൽ ഷെഡ്യൂൾ ടേബിൾന്ടെ ലെങ്ത് അനാവശ്യമായിത്തീരുമെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിരുന്നു അതിനാൽ നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ രൂപകൽപ്പനയിലും ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ ചതുരാകൃതിയിൽ വിഭജിക്കുന്നു അല്ലെങ്കിൽ പ്രധാന സൈക്കിൾ ഫ്രെയിം സൈസ്ന്ടെ ഇന്റഗ്രൽ മൾട്ടിപിൽ ആണ് ഒരു ജോബ് അതായത് ഒരു ടാസ്ക് ഇൻസ്റ്റൻസ്ന്ടെ വരവും അതിന്റെ ഡെഡ്ലൈനും തമ്മിൽ കുറഞ്ഞത് ഒരു ഫുൾ ഫ്രെയിമെങ്കിലും ഉണ്ടായിരിക്കണം നമുക്ക് ഈ ഉദാഹരണം നോക്കാം ഫ്രെയിം ആരംഭിച്ചതിനുശേഷം i എന്ന ടാസ്ക് ഇൻസ്റ്റൻസ് ഇവിടെയെത്തുന്നുവെന്ന് കരുതുക ഈ ഫ്രെയിമിന് ഈ ടാസ്ക് നിർവ്വഹണം ആരംഭിക്കാൻ കഴിയില്ല കാരണം ഷെഡ്യൂളർ ഫ്രെയിമിന്റെ തുടക്കത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എക്സിക്യൂഷൻ ആരംഭിക്കണമെങ്കിൽ ഈ ഘട്ടത്തിൽ എന്തെകിലും ചെയ്യണം Ti യുടെ നിർവ്വഹണം ഈ ഫ്രെയിമിൽ ആരംഭിക്കാൻ കഴിയില്ല ഒരു ഷെഡ്യൂളറിന് അടുത്ത ഫ്രെയിം മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ പക്ഷേ അപ്പോഴേക്കും അതിന്റെ ഡെഡ്ലൈൻ വളരെ അടുത്തിട്ടുണ്ടാകും ടാസ്ക് ടൈം ഡെഡ്ലൈൻ കടന്നു നീണ്ടു പോയേക്കാം ഡെഡ്ലൈൻ മിസ്സ് ചെയാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ രൂപകൽപ്പനയിലെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിം സൈസ് സെറ്റ് ചെയുമ്പോൾ ടാസ്ക് റിലീസിനും ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടാകണമെന്നു നിര്ദേശിക്കുന്നതും അതു ഒരു വലിയ ഫ്രെയിം സൈസ് ആയി സെറ്റ് ചെയാൻ പറയുനതും നമ്മുടെ രൂപകൽപ്പന പ്രശ്നം എന്താനുവെച്ചാൽ നമ്മൾ നിബന്ധനകൾ എലാം നോക്കി എടുക്കേണ്ട ഫ്രെയിമിന്റെ പരമാവധി സൈസ് ഏതാണ് എന്നത് ആണ് അതായത് ടാസ്ക് ഇൻസ്റ്റൻസിന്റെ റീലീസ്ഉം അതിന്റെ ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണം വ്യക്തമായും നമ്മളുടെ ഫ്രെയിം സൈസ് ടാസ്ക് ഇൻസ്റ്റൻസ്നെകാളും അതിന്റെ ഡെഡ്ലൈനിനെക്കാളും വലുതാണെങ്കിൽ ഇവയ്ക്കിടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം നമുക്കില്ലായിരിക്കാം പക്ഷേ അതിനേക്കാൾ മികച്ചത് നമുക്ക് ചെയ്യാൻ കഴിയും GCDFPi എന്ന ലളിതമായ എക്സ്പ്രെഷൻന് നമുക്ക് നോകാം എന്നാൽ അതിന്ടെ ടെറിവേഷൻDerivation വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല GCDF Pi ഫ്രെയിമിന്റെ സൈസ് നൽകുന്നു അതിനാൽ 2F GCD F pi ≤ di സാറ്റിസ്ഫൈ ചെയ്യണം GCDF pi എന്നത് ഒരു ടാസ്ക്ന്ടെ വേർസ് കേസ് ആയി നമ്മൾ കണക്കാകുന്നു ഇതു സംഭവിക്കുന്നത് ഒരു ഫ്രെയിമിന്റെ GCD F pi ന് ശേഷമാണ് ഇത് വേർസ്റ് കേസ് ആണ് ഈ സാഹചര്യത്തിൽ ടാസ്കുകൾ ഡെഡ്ലൈൻ പൂർത്തിയാക്കുന്നതിന് രണ്ടാമത്തെ ഫ്രെയിമിന്റെ അവസാനത്തിന് മുമ്പായി നമുക്ക് അതിന്റെ ഡെഡ്ലൈൻ ഉണ്ടായിരിക്കണം കാരണം ഇവിടെ നമ്മൾ അതിന്റെ നിർവ്വഹണം ആരംഭിക്കാം വളരെയധികം സമയം കഴിഞ്ഞു ഇത് നൽകുന്നത് F GCDF pi ആണ് നമുക്ക് ഒരു ഫ്രെയിം കൂടി ശേഷിക്കുന്നു 2F GCD F pi ≤ di എല്ലാ ടാസ്കുകൾക്കും സാറ്റിസ്ഫയ് ചെയ്യണം കാരണം ഫ്രെയിം ഉണ്ടായതിനു ശേഷമുള്ള ഒരു ടാസ്ക്ന്ടെ ഏറ്റവും വേർസ്റ് കേസിനെ GCD F pi സൂചിപ്പിക്കുന്നു അതിനാൽ ശേഷിക്കുന്ന ടൈംമിൽ ഇവിടെ ടാസ്ക് ചെയ്യാൻ കഴിയില്ല ഇതു നൽകുന്നത് F GCDF pi ആണ് തുടർന്ന് ടാസ്ക് ഇവിടെ ഏറ്റെടുക്കുകയും 1F ശേഷിക്കുകയും ചെയ്യാം ഡെഡ്ലൈൻ ഇവിടെ അവസാനമാണെങ്കിൽ അത് മീറ്റ് ചെയാൻ ക്രമീകരിക്കപ്പെടുന്നു അത് ഇവിടെ 2F GCD pi f ഡി ആയി പ്രകടിപ്പിക്കുന്നു അത് എല്ലാ ടാസ്കുകൾക്കും ആയിട്ടു ആയിരികും ഇവയാണ് മൂന്ന് നിബന്ധനകൾ ഫ്രെയിം സൈസ് ഓരോ ടാസ്ക് എക്സിക്യൂഷൻ ടൈംനെക്കാളും കൂടുതലായിരിക്കണം ഓരോ ടാസ്ക്കിനും 2F GCD F pi ≤ di ആണ് പ്രധാന സൈക്കിളെയും എല്ലാ പീരിയഡ്ന്ടെ LCM എന്നിവ സമചതുരമായി വിഭജിക്കണം അത് ഫ്രെയിം സൈസ്ഇൽ വിഭജിക്കണം അതു എക്സ്പ്രസ്സ് ചെയുന്നത് fLCMf LCM ആയിട്ടാന് ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനേ സമചതുരമായി വിഭജിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഫ്രെയിം സൈസ് എപ്പോൾ തിരഞെടുക്കണമെന്നു നമ്മൾ തീരുമാനിക്കണം ഇവിടെ നിരവധി ഫ്രെയിം സൈസ് സാധ്യമാണ് ഇതിനെ പ്ലോസിബിൽ ഫ്രെയിം സൈസ് എന്ന് വിളിക്കുന്നു തുടർന്ന് നമുക്ക് പ്ലോസിബിൽ ഫ്രെയിം സൈസ് ഉണ്ടെകിൽ പോലും ഷെഡ്യൂൾ കണ്ടെത്താനാകില്ല കാരണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട മൊത്തം ജോബ് ഇൻസ്റ്റൻസ്സ്ന്ടെ എണ്ണം ഒരു പ്രധാന സൈക്കിളിലെ ഫ്രെയിമുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എല്ലാ പ്ലോസിബിൽ ഫ്രെയിം സൈസ്ഉം സ്വീകാര്യമായിരിക്കില്ല ചില ഉദാഹരണങ്ങളിലൂടെ നമക്ക് ഇതു കാണും തുടർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്രെയിം സൈസ്കൾ നമ്മൾ കണ്ടെത്തുകയും അവയിൽ ഏറ്റവും വലുത് തിരഞ്ഞെടുക്കുകയും ചെയ്യും കാരണം ഇത് ഷെഡ്യൂളർ കാരണം ഉണ്ടാകുന്ന ഓവർഹെഡ് കുറയ്ക്കും അടുത്ത പ്രഭാഷണത്തിൽ ഫ്രെയിമുകളുടെ സൈസ് രൂപകൽപ്പന ചെയ്യുന്നതിനും ഫ്രെയിമുകളിലേക്ക് ടാസ്കുകൾ ഏൽപ്പിക്കുന്നതിനും കുറച്ച് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തുടരും ഇപ്പോൾ നമ്മൾ നിർത്തുന്നു